ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ 2D അതിനാൽ ഇതാണ് അതിനുള്ള പ്രചോദനം ഇപ്പോൾ 2D യിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം അത് ഒരു തികഞ്ഞ അതിർത്തി വ്യവസ്ഥയായിരിക്കില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കൂടി ഒരു ചർച്ച നടത്തി നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് അതിനുമുകളിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് അതിനാൽ 2D യിൽ എന്താണ് സംഭവിക്കുന്നത് അത് ഇതുപോലെയാണ് എനിക്ക് ഇവിടെ ചില അതിരുകളുണ്ട് നമുക്ക് ഇവിടെ ഒരു ആക്സിസ് വരയ്ക്കാം ഇങ്ങനെ ഒരു തരംഗം ഇവിടെ സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് പറയാം അത്തരമൊരു തരംഗത്തിൻറെ സമവാക്യം എന്തായിരിക്കും അതിലൊരു എന്നും എന്നും ഉള്ള ഒരു തരംഗ വെക്ടർ ഉണ്ടായിരിക്കും അതിനാൽ ഈ 2 D തരംഗത്തിന് എനിക്ക് എന്നെഴുതാൻ കഴിയും ഇപ്പോൾ ഈ അതിർത്തിയിൽ ഞാൻ എന്ന ഈ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുക അത് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുമോ അപ്പോൾ ആദ്യത്തെ ഡെറിവേറ്റീവ് എനിക്ക് എന്നും രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്നും എനിക്ക് നൽകും ഇത് യഥാർത്ഥത്തിൽ പൂജ്യത്തിന് തുല്യം ആകുകയില്ല ഇല്ല കാരണം എന്താണ്

അതിനാൽ ഈ സമവാക്യം അസാധുവായിരിക്കും അതിനാൽ ഈ തരംഗത്തിന് എന്ത് സംഭവിക്കും എന്തായാലും ഇത് ഒരു സംഖ്യാപരമായ പ്രതിഫലനമായിരിക്കും അതിനാൽ തരംഗം ഇവിടെ തട്ടുന്നു ഇത് ഭൌതികമല്ലാത്ത സംഖ്യ ആണ് അതിനാൽ ഇത് ഒരു അനാവശ്യ പ്രതിഫലനമാണ് അതിനാൽ FEM ചർച്ചയുടെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത് നമ്മൾ അതിനൊപ്പം ചെയ്ത് ഇതാണ് നമുക്ക് ലഭിച്ചത് അതിനർത്ഥം ആകുന്നിടത്തോളം അത് എനിക്ക് 0 പ്രതിഫലനം തരും എന്നാണ് പൂജ്യമല്ലാത്ത ഏതൊരു ആയാലും അത് എനിക്ക് പ്രതിഫലനം തരും അതു തന്നെയാണ് നമ്മൾ പരിഗണിച്ചിരുന്നതും പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പ്രതിഫലനത്തിന്റെ മൂല്യം എന്താണെന്ന് കണക്കാക്കുക എന്നതാണ് എന്റെ തെറ്റ് എത്ര മോശമാണെന്ന് എനിക്ക് കൃത്യമായി അറിയണം അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ എന്താണ് R എന്ന് നമുക്ക് ചോദിക്കാം അതിനാൽ R എന്നത് പ്രതിഫലന ഘടകമാണ് ഇത് ഒരു സംഖ്യാപരമായ പ്രതിഫലന ഘടകമാണെന്ന് ഓർക്കുക അപ്പോൾ എനിക്ക് എന്നതിനെ കോസിൻ്റെയും സൈനിൻ്റെയും പദമായും എഴുതാം അത് എങ്ങനെയായിരിക്കും യും യും ആണ് അവ എനിക്ക് ഇവിടെ ഒരു പതന തരംഗമുണ്ട് ഇവിടെ പ്രതിഫലിക്കുന്ന ഒരു തരംഗവുമുണ്ട് അതിനാൽ എന്താണ് പതന മണ്ഡലം പതന മണ്ഡലം താഴെ ഇടത്തുനിന്ന് മുകളിൽ വലത്തോട്ട് സഞ്ചരിക്കുന്ന ഒരു തരംഗമാണ് അപ്പോൾ എനിക്ക് അതിനെ എന്നെഴുതാം പ്രതിഫലന തരംഗം ആയിരിക്കും ആകെ മണ്ഡലം പതനത്തിൻറെയും പ്രതിഫലനത്തിൻറെയും മണ്ഡലങ്ങളുടെ തുകയായിരിക്കും പ്രതിഫലന ഘടകം R ആണ് അതെനിക്ക് അറിയാത്തതിനാൽ കണ്ടുപിടിക്കണം അതിനാൽ ഇവിടെ അതിർത്തി വ്യവസ്ഥ പറയുന്നത് ഇത് പ്രയോഗിക്കുക അപ്പോൾ ഇത് എന്റെ FDTD ചെയ്യും അപ്പോൾ അത് ശരി എന്ന് പറയും ഏതൊരു വൈദ്യുത മണ്ഡലം ആണോ വരുന്നത് ഞാൻ അതിൽ എന്നാ വ്യവസ്ഥപ്രയോഗിക്കും മാത്രമല്ല ഈ തരംഗം വലതുവശത്തിന് ലംബമായി അകലേക്ക് സഞ്ചരിക്കുന്നതിനാൽ നമുക്കിത് പൂജ്യത്തിനു തുല്യം ആവുകയില്ല എന്നറിയാം അതിനാൽ ഇത് എനിക്ക് യുടെ ഒരു ഫംഗ്ഷൻ ആയി R നെ എങ്ങനെ കണക്കു കൂട്ടാം എന്ന് കാണിക്കുന്നു അതിനാൽ നമുക്ക് അത് പ്രയോഗിച്ച് കാണാം അതിനാൽ ഇവിടെ ഒരു x ഡെറിവേറ്റീവ് ഉണ്ട് ഒരു t ഡെറിവേറ്റീവ് ഉണ്ട് y ഡെറിവേറ്റീവ് ഇല്ല അതിനാൽ ഈ എക്സ്പോണൻഷ്യലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പതന മണ്ഡലത്തിലെയും പ്രതിഫലന മണ്ഡലത്തിലെയും y എന്ന പദം ഒഴിവാക്കാം വിദ്യാർത്ഥി അത് യഥാർത്ഥത്തിൽ അപ്പോൾ അത് ആയിരിക്കും ഇല്ല ഈ പതനം അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് അതിനാൽ ഇവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായി ഈ പതന മണ്ഡലത്തെ ഒരു ആന്റിനയിൽ നിന്നോ മറ്റോ പുറത്തു വരുന്ന മണ്ഡലമായി കരുതേണ്ടതില്ല ഇവിടെ ഞാൻ നിരീക്ഷിക്കേണ്ടത് അതിർത്തിയിൽ പതിക്കുന്ന ഒരു മണ്ഡലമാണ് അതിനാൽ ഈ പതനം യഥാർത്ഥത്തിൽ ചിതറിക്കിടക്കുന്ന ഒരു മണ്ഡലം മാത്രമാണ് ഈ അതിർത്തി വ്യവസ്ഥ തികഞ്ഞതാണെങ്കിൽ അവിടെ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലവും ഉണ്ടാകരുത് അതിനാൽ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് മുമ്പ് ഈ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് കരുതുക അപ്പോൾ R പൂജ്യമായിരുന്നു അതിനാൽ ഈ മുഴുവൻ തുകയും മൊത്തം 0 ആയിരുന്നു ഇപ്പോൾ പ്രതിഫലന മണ്ഡലം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ് ഇല്ല FDTD യിൽ വീണ്ടും രണ്ട് രൂപവൽക്കരണങ്ങൾ ഉണ്ട് ആകെയുള്ള മണ്ഡലത്തിൻറെ രൂപവൽക്കരണം ചിതറിക്കിടക്കുന്ന മണ്ഡലത്തിൻറെ രൂപവൽക്കരണം രൂപവത്കരണത്തെ ആശ്രയിച്ച് നമ്മൾ ചിതറിക്കിടക്കുന്ന മണ്ഡലത്തിലേക്കോ മൊത്തം മണ്ഡലത്തിലേക്കോ മാത്രം അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കും അതിനാൽ ഇവിടെ ആകെയും ചിതറിക്കിടക്കുന്നതുമായ മണ്ഡലത്തെ പതനവും പ്രതിഫലനവുമായി സംയോജിപ്പിച്ച് കൂട്ടിക്കലർത്തരുത് ഇത് ഒരു ഭൌതിക പ്രതിഫലനമല്ല ഞാൻ അവിടെ ഒരു വസ്തു ഇട്ടിട്ടില്ല ഇത് ഒരു സംഖ്യാപരമായ പ്രതിഫലനം ആണ് അതിനാൽ നമുക്ക് ഇത് പ്രയോഗിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ആദ്യ പദം എനിക്ക് എന്ത് നൽകും പതനവും ഒപ്പം അതെ അതെ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ FDTD നടപ്പിലാക്കാൻ പോകുന്നില്ല ഇത് FDTD യെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് അതിനാൽ ഇതുവരെ FDTD അപ്ഡേറ്റ് സമവാക്യങ്ങളിൽ നമ്മൾ കണ്ടത് E ഉം H ഉം ആകെ മണ്ഡലങ്ങളായാണ് ഉദാഹരണത്തിന് ഇവിടെ ചിതറിക്കിടക്കുന്നു ഇവിടെ എന്റെ അതിരുകൾ ഉണ്ടെന്ന് കരുതുക അതിനാൽ അതിൽ പിന്തുടരുന്ന ഏത് മണ്ഡലങ്ങളും ചിതറിക്കിടക്കുന്ന മണ്ഡലങ്ങളാണ് അതിനാൽ ഞാൻ അതിൽ ഈ അതിർത്തി വ്യവസ്ഥ ചുമത്താൻ പോകുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തികഞ്ഞ അതിർത്തി അവസ്ഥയിൽ ഇതുമൂലമുള്ള പ്രതിഫലനം എന്താണെന്നതിന്റെ ഒരു വിശകലനമാണ് അതിനാൽ ആദ്യ പദം എനിക്ക് എന്താണ് നൽകുന്നത് അപ്പോൾ എനിക്ക് എന്നാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ആകെയുള്ള വേരിയബിൾ R ആണ് അതെനിക്ക് അറിയാത്തതും ആണ് അതിനാൽ അതിൽ നിന്ന് എനിക്ക് R നെ എന്നെഴുതാവുന്നതാണ് അതിനാൽ എന്നതിനെ ഞാൻ യുടെ ഒരു ഫംഗ്ഷൻ ആയി ഇവിടെ പ്ലോട്ട് ചെയ്താൽ അപ്പോൾ എന്നത് 0 ന് തുല്യമായിരിക്കും അതിനാൽ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും 0 ഇവിടെ നിന്ന് തുടങ്ങും 90 ആകുമ്പോൾ എന്ത് സംഭവിക്കും അതെ അതിനാൽ എന്നത് 1 ആകും അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിശകലനം യഥാർത്ഥത്തിൽ FDTD അല്ലെങ്കിൽ മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല ഇത് ഒരു പൊതു വിശകലനമാണ് ഞാൻ ഒരു അപ്ഡേറ്റ് സമവാക്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇതിൽ ചോദിക്കുന്നത് എന്താണ് 2D തരംഗത്തിൽ ഈ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കുന്നതിൻറെ ഫലം FEM ചർച്ചയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാമായിരുന്നു അതിനാൽ ഒരു അതിർത്തി വ്യവസ്ഥ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇത് നൽകുന്നുണ്ടോ ഇവിടെ 0 ആകുമ്പോൾ പ്രതിഫലനം 0 ആകുന്നു ഞാൻ ആ കോൺ ഒന്നു മാറ്റട്ടെ എനിക്ക് മറ്റൊരു കോണിൽ പ്രതിഫലനം കുറയ്ക്കണമെങ്കിൽ അത് സാധ്യമാകുമോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിർത്തി വ്യവസ്ഥ മാറ്റേണ്ടിവരും അല്ലേ അതിനാൽ അതിർത്തി വ്യവസ്ഥ മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുക അതു നമുക്ക് പിന്നീട് ചെയ്യാം പക്ഷേ അടിസ്ഥാനപരമായി ചില ആവശ്യമുള്ള യിൽ ഇവിടത്തെ പദപ്രയോഗം ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഞാനിവിടെ അതിനു ഉപകാരപ്രദമായ എന്നതുപോലെ കുറച്ച് പുതിയ പദങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിർത്തി വ്യവസ്ഥ നിയന്ത്രിക്കാനാകും ഏതെങ്കിലും കാരണത്താൽ എൻറെ സിമുലേഷനിൽ കൂടുതൽ തരംഗങ്ങളും എന്നതിൽ വരും എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ യിൽ നല്ല രീതിയിൽ ആഗിരണം ചെയ്യുന്നതുപോലെ എനിക്ക് അതിർത്തി വ്യവസ്ഥ മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതിലും കുറച്ചുണ്ടാകും അതെ അതെ അതുപോലെ തന്നെ നിങ്ങൾ ഇടതുവശത്തേക്ക് മാറ്റേണ്ടതുണ്ട് വിദ്യാർത്ഥിപക്ഷേ മാത്രമാണ് ബാക്കിയുള്ളത് അതെ അതിനാൽ അതല്ല പിന്നെന്താണ് വലത് അതിർത്തിയിൽ പതിക്കുന്ന ഒരു തരംഗത്തിന് ഈ ഡെറിവേഷൻ ശരിയാണ് ഇപ്പോൾ ഞാൻ ഇടത് അതിരുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പ്രയോഗിക്കുന്ന എന്റെ അതിർത്തി വ്യവസ്ഥ ഇതാകുകയില്ല അത് മറ്റ് അതിർത്തി വ്യവസ്ഥയായിരിക്കും അതായത് സമവാക്യം 3 എന്ന അതിർത്തി വ്യവസ്ഥയായിരിക്കും ഞാൻ സമാനമായ വിശകലനം ചെയ്തു പ്രതിഫലന ഘടകം എന്താണെന്ന് കണ്ടെത്തും നിങ്ങൾക്ക് അതേ കാര്യം തന്നെ ലഭിക്കും അതിനാൽ പൊതുവായി എൻറെ കണക്കുകൂട്ടൽ പ്രദേശം ഇത്തരത്തിൽ ആണെങ്കിൽ ഓരോ ഭാഗത്തും എനിക്ക് വ്യത്യസ്ത അതിർത്തി വ്യവസ്ഥകൾ ആയിരിക്കും ഞാൻ ഞാൻ നമ്മുടെ വലതുവശത്തെ അതിർത്തി വ്യവസ്ഥ ഇടതു അതിർത്തിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 0 ആകുമ്പോൾ പോലും പ്രതിഫലനം ഉണ്ടാവുകയില്ല അതിനാൽ ആ തെറ്റ് ഉണ്ടാകരുത് പ്രതിഫലനം കൂട്ടിച്ചേർക്കപ്പെടും അങ്ങനെ ഇത് ഇതിന് തുല്യമായിരിക്കും